ഹലോ സോഫ്റ്റ് സ്കിൽസും വ്യക്തിത്വവും വികസിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള എൻ മൂക്ക് കോഴ്സിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ ഐഐടി കാൺപൂരിൽ നിന്നുള്ള രവി ചന്ദ്രൻ ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസസ് വകുപ്പ് ഇത് ആഴ്ച 7 മൊഡ്യൂൾ 6 പ്രഭാഷണ നമ്പർ 42 എന്നിവയാണ് ഇത് ഈ ആഴ്ചയിലെ അവസാന പ്രഭാഷണമാണ് നമുക്ക് ഒരു ആഴ്ച കൂടി മാത്രമേയുള്ളൂ ഇപ്പോൾ ഈ ആഴ്ചയിൽ ഞാൻ ശരീരഭാഷയെക്കുറിച്ചുള്ള ഈ മൊഡ്യൂൾ അവസാനിപ്പിക്കാൻ പോകുന്നു പ്രത്യേകിച്ചും ഗ്രൂപ്പ് ചർച്ചകൾക്ക് ഇത് എങ്ങനെ പ്രസക്തമാകും എന്നതിൽ ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കും ഞാൻ ആരംഭിക്കുന്നതിന് മുമ്പ് മുമ്പത്തെ പ്രഭാഷണത്തിൽ ഞാൻ എന്താണ് ചെയ്തതെന്ന് ഒരു ഹ്രസ്വ അവലോകനം നൽകട്ടെ മുൻ പ്രഭാഷണത്തിൽ ഞാൻ അഭിമുഖങ്ങൾക്കായി ശരീരഭാഷയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ശരീരഭാഷയ്ക്കുള്ള തയ്യാറെടുപ്പ് ഒരു ദിവസം മുമ്പ് ആരംഭിക്കുന്നില്ലെന്ന് നിങ്ങളോട് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആരംഭിച്ചത് ഇത് ഒരു മാനസികവും വൈകാരികവും ആത്മീയവുമായ തയ്യാറെടുപ്പാണ് തുടർന്ന് അഭിമുഖത്തിന് വളരെ മുമ്പുതന്നെ തയ്യാറെടുപ്പ് ആവശ്യമാണ് തുടർന്ന് നിങ്ങൾ ശാന്തവും ആത്മവിശ്വാസവുമുള്ളവരായിരിക്കണം തൊഴിലുടമകൾ സാധാരണയായി എന്താണ് നോക്കുന്നത് രൂപം മനോഭാവം വ്യക്തിത്വം പോസിറ്റീവ് വീക്ഷണം തുടങ്ങി നിരവധി ശരീരഭാഷ സവിശേഷതകൾ ഉൾക്കൊള്ളുന്ന സോഫ്റ്റ് സ്കിൽസ് ആണ് തൊഴിലുടമകൾ വ്യക്തമായി തേടുന്നത് പലപ്പോഴും അവസാനത്തെ ഭാവമായി മാറുന്ന ആദ്യ മികച്ച ഭാവം ഉണ്ടാക്കേണ്ടത് വളരെ പ്രധാനമാണ് ആ ആദ്യ മതിപ്പ് ഉണ്ടാക്കാൻ ഒരാൾ ശ്രദ്ധിക്കേണ്ടത് സമയനിഷ്ഠ വസ്ത്രധാരണം വളരെ ഉറച്ചതായിരിക്കേണ്ട ഹസ്തദാനം ശരീരഭാഷ ഭാവങ്ങളും ആംഗ്യങ്ങളും ഉൾപ്പെടെ അതിന്റെ എല്ലാ വശങ്ങളും തുടക്കം മുതൽ അവസാനം വരെ മൊത്തത്തിലുള്ള ആവേശവും മുഖഭാവങ്ങളിൽ നിന്ന് വരണം വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായ ചില കാര്യങ്ങളെക്കുറിച്ചും ഞാൻ ചർച്ച ചെയ്തു പ്രത്യേകിച്ച് രൂപത്തിന്റെ കാര്യത്തിലും ആക്സസറികളുടെ ഉപയോഗത്തിലും അതിനാൽ നിങ്ങൾ എന്തുചെയ്യണമെന്നും എന്തുചെയ്യരുതെന്നും ഞാൻ പറഞ്ഞു ദൃഢമായ ഹസ്തദാനം നല്ല നേത്ര സമ്പർക്കം നിലനിർത്തൽ ഉചിതമായ ഭാവം തുടങ്ങിയ ശരീരഭാഷയുടെ ചില പ്രധാന വശങ്ങൾ ഉപസംഹാരത്തിലേക്ക് ഞാൻ ഊന്നിപ്പറഞ്ഞു അതിനാൽ അല്പം മുന്നോട്ട് ചായുക പക്ഷേ പിന്നോട്ട് ചായാതിരിക്കുക ഉടനീളം ഉത്സാഹം കാണിക്കുക പുഞ്ചിരിക്കുക ആത്മവിശ്വാസം വികിരണം ചെയ്യുക ശാന്തതയും സംയമനവും നിലനിർത്തുക അവസാനം ഒരു നല്ല വികാരത്തോടെ പോകുക ഇപ്പോൾ ഇത് ഗ്രൂപ്പ് ചർച്ചയിൽ നിന്ന് എത്ര വ്യത്യസ്തമാണെന്ന് നിങ്ങൾ ചോദിക്കുമ്പോൾ ആദ്യം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അഭിമുഖത്തിന്റെ ശരീരഭാഷ ഗ്രൂപ്പ് ചർച്ചയുടെ ശരീരഭാഷയ്ക്ക് ഏറെക്കുറെ സമാനമാണ് എന്നതാണ് അതിനാൽ അഭിമുഖത്തിന്റെ കാര്യത്തിൽ വളരെ പോസിറ്റീവും ആത്മവിശ്വാസവുമുള്ള ഒരു വ്യക്തിത്വം അവതരിപ്പിക്കുന്ന കാര്യത്തിൽ ഞാൻ പറഞ്ഞ മിക്ക സ്വഭാവങ്ങളും ഗ്രൂപ്പ് ചർച്ചയോടൊപ്പം പോകുന്നു എന്നാൽ നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കേണ്ട ചില വ്യത്യാസങ്ങളുണ്ട് ആ വ്യത്യാസങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം വ്യത്യാസങ്ങൾ അടിസ്ഥാനപരമായി ഇവിടെ നിങ്ങൾ ഒരു ഗ്രൂപ്പിലായിരിക്കും ഒരു അഭിമുഖത്തിൽ നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കും ഒരു ഗ്രൂപ്പ് നിങ്ങളെ വിലയിരുത്താൻ ശ്രമിക്കുന്നു ഇവിടെ നിങ്ങൾ ഗ്രൂപ്പിന്റെ ഭാഗമാണ് അതിനാൽ നിങ്ങൾക്ക് കൂടുതൽ ഗ്രൂപ്പ് ഡൈനാമിക്സ് ഉണ്ടായിരിക്കണം തുടർന്ന് നിങ്ങളെ നിരവധി ആളുകൾക്ക് പരിശോധിക്കാൻ കഴിയും തുടർന്ന് ഗ്രൂപ്പ് ചർച്ചയുടെ കാര്യത്തിൽ വ്യത്യസ്ത കോണുകളിൽ നിന്ന് നിങ്ങളെ കാണാൻ കഴിയും ഇപ്പോൾ യഥാർത്ഥ ശരീരഭാഷ സവിശേഷതകളിലേക്ക് പോകുന്നതിനുമുമ്പ് എന്തുകൊണ്ടാണ് ഇന്ന് ഗ്രൂപ്പ് ചർച്ച ഉപയോഗിക്കുന്നത് എന്നും പ്രത്യേകിച്ച് സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് എന്നും നോക്കാം ഗ്രൂപ്പ് ചർച്ച ഉപയോഗിച്ച് ഒരേസമയം നിരവധി സ്ഥാനാർത്ഥികളെ വിലയിരുത്താനും ഇല്ലാതാക്കാനുമുള്ള എളുപ്പമാർഗ്ഗമാണിത് കൂടാതെ ഇത് സമയവും ചെലവ് കുറഞ്ഞ രീതിയുമാണ് അതിനാൽ നിങ്ങൾക്ക് 5000 പേരെ വിളിക്കാം തുടർന്ന് 5000 ൽ നിന്ന് നിങ്ങൾക്ക് അവരെ വിവിധ ഗ്രൂപ്പുകളായി വിഭജിക്കാം തുടർന്ന് 20 ൽ നിന്ന് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് 2 അല്ലെങ്കിൽ 3 സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കാം തുടർന്ന് ഒരു ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് അത് 500 എന്ന് പറയാം തുടർന്ന് 500 ൽ നിന്ന് നിങ്ങൾക്ക് വീണ്ടും വളരെ എളുപ്പത്തിൽ 50 ലഭിക്കും 50 ൽ നിന്ന് ആ ആളുകൾ അഭിമുഖത്തിന് പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഈ ലോട്ടിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള ഏറ്റവും മികച്ച 30 അല്ലെങ്കിൽ 25 തിരഞ്ഞെടുക്കാം അതിനാൽ സമയവും ചെലവും കണക്കിലെടുത്ത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് വളരെ എളുപ്പമാണ് ഇത് വളരെ ഫലപ്രദമാണ് അതിൽ ഏറ്റവും പ്രധാനം ഒരു സ്വാഭാവിക നേതാവിനെ തിരിച്ചറിയാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗമാണ് അതിനാൽ മിക്ക സാധാരണ ഗ്രൂപ്പ് ചർച്ചകളും മാനേജ്മെന്റ് അഭിമുഖങ്ങൾക്കായി നടത്തുന്നവയാണ് ഉദാഹരണത്തിന് ഒരു യഥാർത്ഥ മത്സ്യവിപണിയിൽ ആളുകൾ പോകുന്നതുപോലെ തോന്നുന്നു ചിലപ്പോൾ അവർ വളരെ ആക്രമണകാരികളാണ് അവർ പരസ്പരം പോരടിക്കുന്നു എന്നിരുന്നാലും അവർ ആ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല തുടർന്ന് എല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്നു അതിനാൽ അവർ അവരുടെ കാഴ്ചപ്പാടുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു അതിന്റെ ഫലമായി നിങ്ങൾ ഒരു മീൻ മാർക്കറ്റിലാണെന്നപോലെ വളരെയധികം ആളുകൾ ഒരുമിച്ച് സംസാരിക്കുകയും ധാരാളം ശബ്ദമുണ്ടാക്കുകയും ചെയ്യുന്നു എന്നാൽ ആ സാഹചര്യത്തിൽ ആരെങ്കിലും ഉയർന്നുവരികയും എല്ലാ ആളുകളെയും ശാന്തരാക്കുകയും ചെയ്യുന്നു ഒരുപക്ഷേ അവന്റെ അല്ലെങ്കിൽ അവളുടെ വ്യക്തിത്വം കരിസ്മാ ഭാഷാ വൈദഗ്ദ്ധ്യം എന്നിവയാൽ ഈ വ്യക്തിയിൽ വളരെ നിർണായകമാണ് സ്വാഭാവിക നേതാവിനെ തിരിച്ചറിയാൻ മാത്രമാണെങ്കിൽ വീണ്ടും എന്താണ് ഗ്രൂപ്പ് ചർച്ച അത് എങ്ങനെ ചെയ്യപ്പെടുന്നുവെന്ന് പ്രതീക്ഷിക്കുന്ന സ്വഭാവസവിശേഷതകൾ എന്തൊക്കെയാണ് വരാനിരിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ ചില വ്യക്തിത്വ സവിശേഷതകൾ കണക്കാക്കാൻ തൊഴിലുടമകൾ ഉപയോഗിക്കുന്ന ഒരു ഗ്രൂപ്പ് സംവേദനാത്മക തിരഞ്ഞെടുപ്പ് പ്രക്രിയയെ ഗ്രൂപ്പ് ചർച്ച എന്ന് വിളിക്കുന്നു നിങ്ങൾ ഇത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ നിരീക്ഷിക്കേണ്ട വ്യക്തിത്വ സവിശേഷതകൾ എന്തൊക്കെയാണ് ഞാൻ ഇട്ടിരിക്കുന്ന മികച്ച 8 സ്വഭാവവിശേഷങ്ങൾ എല്ലാം വാക്കേതര ആശയവിനിമയവുമായും മൃദുവായ കഴിവുകളുമായും ബന്ധപ്പെട്ടിരിക്കുന്നു വ്യക്തമായും ഞാൻ ഇട്ട അവസാനത്തെ 3 ശരീരഭാഷ മാത്രമേ അറിവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുള്ളൂ നേതൃത്വപരമായ കഴിവുകൾ ഗ്രൂപ്പ് മാനേജ്മെന്റ് ടീം വർക്കിംഗ് കഴിവുകൾ ആശയവിനിമയ കഴിവുകൾ പൊരുത്തപ്പെടുത്തലും വഴക്കവും പോസിറ്റീവ് മാനസിക വീക്ഷണം മാന്യവും പ്രൊഫഷണലുമായ വസ്ത്രധാരണം ഗ്രൂമിംഗ് സെൻസ് ഉറച്ച ശരീരഭാഷ വ്യതിരിക്തമായി ഇഷ്ടപ്പെടുന്ന വ്യക്തിത്വത്തിന്റെ പ്രൊജക്ഷൻ യുക്തിസഹമായ കഴിവ് വിശകലന ശേഷി യുക്തിസഹവും യോജിച്ചതുമായ ചിന്ത അതിനാൽ ഈ അവസാന 3 എണ്ണം യഥാർത്ഥത്തിൽ അറിവുമായി ബന്ധപ്പെട്ടതാണ് എന്നാൽ ബാക്കിയുള്ളവ എല്ലായ്പ്പോഴും വാക്കേതര ആശയവിനിമയം ശരീരഭാഷ മൃദുവായ കഴിവുകൾ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വാക്കേതര ആശയവിനിമയം എന്താണ് ചെയ്യുന്നത് ഇത് പങ്കെടുക്കുന്ന എല്ലാവരുടെയും കാഴ്ചപ്പാടുകൾ ഉയർത്തുകയും സജീവവും തീവ്രവുമായ ആശയവിനിമയത്തിലൂടെ ഒരു സമവായം വികസിപ്പിക്കുകയും ചെയ്യുന്നു ആദ്യം നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് ഗ്രൂപ്പ് ചർച്ചയാണ് വ്യക്തിഗത ചർച്ചയല്ല നിങ്ങൾ കാന്റീനിൽ ആരോടെങ്കിലും സംസാരിക്കുന്നില്ല നിങ്ങൾ ഒരു മാളിൽ നിങ്ങളുടെ സുഹൃത്തിനോട് സംസാരിക്കുന്നില്ല നിങ്ങൾ നടക്കുമ്പോൾ ആരെയെങ്കിലും കണ്ടുമുട്ടുന്നില്ല ഇപ്പോൾ ഇവയെല്ലാം പരസ്പര ആശയവിനിമയമാണ് എന്നാൽ ഇത് ഗ്രൂപ്പാണ് അതിനാൽ നിങ്ങൾക്കൊപ്പം നിരവധി ആളുകൾക്കിടയിലാണ് നിങ്ങൾ അതിനാൽ ഇത് വ്യക്തിഗത ചർച്ചയല്ല പൊതുപ്രസംഗമോ സംവാദമോ അഭിമുഖമോ അല്ല ചർച്ചയെന്ന് അതിന്റെ രണ്ടാം ഭാഗം മനസ്സിലാക്കുന്നു അതിനാൽ നിങ്ങൾ പങ്കെടുക്കുന്ന ഒരു ചർച്ചയിൽ നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുകയും തുടർന്ന് നിങ്ങൾ സജീവമായി കേൾക്കുന്ന ഒരു സമവായത്തിൽ നിങ്ങൾ പരിണമിക്കുകയും തുടർന്ന് തീവ്രമായ ഇടപെടൽ ഉണ്ടാകുകയും ചെയ്യുന്നു പൊതുപ്രസംഗത്തിൽ ഇത് നിങ്ങൾ സംസാരിക്കുന്ന ഒരുതരം വൺവേ ട്രാഫിക്കാണ് പ്രേക്ഷകർ ഇതിനകം തന്നെ നിങ്ങൾക്ക് നേതൃത്വം നൽകുകയും പ്രേക്ഷകരുമായി മത്സരിക്കാതെ പ്രേക്ഷകർ നിങ്ങളെ വിലയിരുത്തുകയും ചെയ്യുന്നു അതേസമയം ഇവിടെ നിങ്ങൾ സംവാദത്തിൽ യഥാർത്ഥത്തിൽ പങ്കാളികൾ ആയ പ്രേക്ഷകരുമായി വീണ്ടും മത്സരിക്കുന്നു ഒരു മോഡറേറ്റർ ഉണ്ട് ഒരു ചെയർപേഴ്സൺ സംവാദത്തിന് അധ്യക്ഷത വഹിക്കുകയും മുഴുവൻ പ്രവർത്തനക്രമത്തിനും ശരിയായ രൂപവും ദിശയും നൽകുകയും ചെയ്യുന്നു വീണ്ടും അഭിമുഖത്തിൽ ബന്ധപ്പെട്ട ജോലിക്കുള്ള ഉദ്യോഗാർത്ഥിയുടെ അനുയോജ്യത വിലയിരുത്തുന്ന ഒരു പാനൽ ഉണ്ട് ഇത് നിങ്ങൾ ഉൾപ്പെടുന്ന മറ്റെല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു ഗ്രൂപ്പ് ചർച്ചയാണ് എന്നാൽ വ്യക്തിഗത തലത്തിൽ എന്നാൽ ഇവിടെ നിങ്ങൾ ഒരു ഗ്രൂപ്പിലുള്ള വ്യക്തിയാണ് അതിനാൽ നിങ്ങളുടെ സ്വന്തം വ്യക്തിത്വ സവിശേഷതകളുമായി ഗ്രൂപ്പ് ഡൈനാമിക്സ് അതിനാൽ ജിഡി എങ്ങനെ ഘടനാപരമായിരിക്കുന്നു എന്നത് നിർണായകമാകുന്നു ഒരു ജിഡിയെക്കുറിച്ചുള്ള രസകരമായ വസ്തുത ഇത് തികച്ചും ഘടനയില്ലാത്ത പ്രവർത്തനമാണ് എന്നതാണ് വാസ്തവത്തിൽ ചില ജിഡികളിൽ വിഷയം സ്വയം തിരിച്ചറിയാൻ അവരോട് ആവശ്യപ്പെടും തുടർന്ന് ഇത് ഒരു ലീഡർ ലെസ് ഗ്രൂപ്പ് ആണ് വളരെ അപൂർവമായ കേസുകളിൽ മോഡറേറ്റർമാരുണ്ട് എന്നാൽ അവർ മനഃപൂർവ്വം മോഡറേറ്റർമാരെ സൂക്ഷിക്കുന്നില്ല ചില ഫെസിലിറ്റേറ്റർമാർ ഉണ്ടെങ്കിലും അവർ ജിഡി ആരംഭിക്കുന്നു തുടർന്ന് അവർ മറഞ്ഞിരിക്കുന്ന ക്യാമറയിൽ നിന്ന് അവരെ കാണുന്ന മുറിയിൽ നിന്ന് പുറത്തുപോകുന്നു അല്ലെങ്കിൽ അവർ ഒരു മൂലയിലേക്ക് പോകുന്നു അവർ അവരെ പൂർണ്ണമായും ഗ്രൂപ്പിന് വിട്ടുകൊടുക്കുന്നു അത് ലീഡർ ലെസ് ഗ്രൂപ്പാണ് എല്ലാ സ്ഥാനാർത്ഥികളും മത്സരാർത്ഥികളാണ് തുടർന്ന് നിങ്ങൾ പരീക്ഷകന്റെ സാന്നിധ്യവും പങ്കാളിത്തവുമില്ലാതെ ചർച്ചയിൽ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അതിനാൽ അതിൽ 10 മുതൽ 50 വരെ സ്ഥാനാർത്ഥികളുണ്ടാകാം ഇത് 15 മുതൽ 30 മിനിറ്റ് വരെ ആകാം ഇപ്പോൾ ചുരുക്കത്തിൽ ജിഡി ഇടാൻ നിങ്ങൾ എന്നോട് ആവശ്യപ്പെടുകയാണെങ്കിൽ ജിഡി ഏകോപനത്തെയും സഹകരണത്തെയും കുറിച്ചുള്ളതാണെന്ന് ഞാൻ പറയും അതിനാൽ ഈ രണ്ട് കീവേഡുകളും നിങ്ങൾ ഓർക്കുകയും ഏകോപിപ്പിക്കുന്നതിനും സഹകരിക്കുന്നതിനുമായി നിങ്ങളുടെ ശരീരത്തെ രൂപപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്താൽ ഏകോപനവും സഹകരണവും നിങ്ങൾ വിജയിക്കും ഇപ്പോൾ ഏകോപനത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ആവശ്യമായ സ്വഭാവസവിശേഷതകൾ എന്തൊക്കെയാണ് അടിസ്ഥാനപരമായി നേതൃത്വഗുണങ്ങൾ നല്ല നേതാവ് ഒരു നല്ല കോർഡിനേറ്റർ നല്ല ഫോളോവർ മാനേജ്മെന്റ് കഴിവുകൾ ഒരു നല്ല നേതാവും ഒരു നല്ല മാനേജർ കൂടിയാണ് അതിൽ ആസൂത്രണം ഉൾപ്പെടുന്നു നിങ്ങൾ ജിഡിയുടെ സമയം മനസ്സിൽ സൂക്ഷിക്കണം നിങ്ങൾ ജിഡി നടത്താൻ കഴിയുന്ന നടപടിക്രമങ്ങളെക്കുറിച്ച് അവരോട് പറയണം നിങ്ങൾ സംഘർഷ പരിഹാര കഴിവുകൾ കാണിക്കണം മൊത്തത്തിൽ നിങ്ങൾക്ക് ജിഡിയുടെ കോർഡിനേറ്റർ ആകാൻ താൽപ്പര്യമുണ്ടെങ്കിൽ യോജിപ്പിക്കാൻ കഴിയണം ഡിയുടെ മറ്റൊരു ഭാഗം സഹകരണത്തെക്കുറിച്ചാണ് ഇത് ഒരു പങ്കിട്ട ലക്ഷ്യത്തിനായി ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ടീം വർക്കാണ് അതിനാൽ നിങ്ങൾക്ക് ഒരു പൊതു ലക്ഷ്യമുള്ള കൂട്ടായ ലക്ഷ്യമുണ്ട് നിങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കണം ഇപ്പോൾ ഈ കാര്യത്തിന്റെ വളരെ രസകരമായ ഭാഗം നിങ്ങൾ ചെയ്യാൻ വെറുക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതുണ്ട് നിങ്ങൾ അത് പുഞ്ചിരിയോടെ ചെയ്യണം അതിനർത്ഥം നിങ്ങൾ സംസാരിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരാളുമായി നിങ്ങൾ സംസാരിക്കേണ്ടതുണ്ട് നിങ്ങളുടെ ശരീരഭാഷ കർക്കശമായിത്തീരുന്ന വ്യക്തിയുടെ രൂപത്താൽ നിങ്ങൾ ഈ വ്യക്തിയെ വെറുക്കാം തുടർന്ന് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ വികാരങ്ങൾ വളരെ വിഷമിക്കുകയും തുടർന്ന് വേദനപ്പെടുകയും ചെയ്യുന്നു തുടർന്ന് നിങ്ങൾക്ക് ഈ വ്യക്തിയിൽ എന്തെങ്കിലും ഇഷ്ടപ്പെടുന്നില്ല ഒരുപക്ഷേ ആ വ്യക്തി വളരെ അക്രമാസക്തനായിരിക്കാം വളരെ നിന്ദ്യനാണ് നിങ്ങൾ അങ്ങനെയല്ല അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കുറച്ച് മോശമായി തോന്നുന്നു പക്ഷേ നിങ്ങൾ ഈ സഹകരണമുള്ള വ്യക്തിയുമായി പ്രവർത്തിക്കണം അതിനാൽ നിങ്ങൾ ചെയ്യാൻ വെറുക്കുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നതാണ് സഹകരണത്തെ നിർവചിച്ചിരിക്കുന്നത് എന്നാൽ നിങ്ങൾ അത് പുഞ്ചിരിയോടെ ചെയ്യണം അതിനാൽ നിങ്ങൾ ഈ വ്യക്തിയെ ഇഷ്ടപ്പെടുന്നില്ല നിങ്ങൾ ആ വ്യക്തിയെ വെറുക്കുന്നു പക്ഷേ സംസാരിക്കുമ്പോൾ എന്റെ സുഹൃത്ത് പറഞ്ഞതുപോലെ നിങ്ങൾ പറയുന്നു ഓ സുഹൃത്തേ ഞാൻ നിങ്ങളോട് യോജിക്കുന്നു നിങ്ങളുടെ ഉള്ളിലെ എന്റെ പ്രിയപ്പെട്ട പങ്കാളി വെറുക്കപ്പെട്ടേക്കാം പക്ഷേ നിങ്ങൾ സഹകരിക്കേണ്ടിവരുമ്പോൾ നിങ്ങളുടെ വികാരം കാണിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല ഇപ്പോൾ ജിഡിയുടെ അടിസ്ഥാന ഘടകങ്ങൾ എന്തൊക്കെയാണ് അതിനാൽ നാല് അടിസ്ഥാന ഘടകങ്ങളുണ്ട് അതിനാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആദ്യ ഘടകം മുൻകൈയെടുക്കൽ തീരുമാനമെടുക്കൽ ആസൂത്രണം ഒരു കാഴ്ചപ്പാട് എന്നിവ ഉൾപ്പെടുന്ന നേതൃത്വവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു രണ്ടാമത്തെ ഘടകം അറിവിനെക്കുറിച്ചാണ് പ്രത്യേകിച്ചും സമകാലിക കാര്യങ്ങളിലും സാങ്കേതിക മുന്നേറ്റങ്ങളിലും ഒരാൾ വിഷയത്തിൽ സമഗ്രമായിരിക്കണം ഇപ്പോൾ ജി ഡിയുടെ ഈ ഭാഗമായ ജി യിൽ നാം വിജ്ഞാനഭാഗത്ത് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല മറിച്ച് ശരീരഭാഷ ഭാഗത്താണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അറിവ് ഒഴികെയുള്ള നാല് അടിസ്ഥാന ഘടകങ്ങളിൽ നിന്ന് നിങ്ങൾ വീണ്ടും നോക്കുകയാണെങ്കിൽ മൂന്നാമത്തേത് സജീവമായ കേൾവി ഒഴുക്കുള്ള വ്യക്തത യോജിപ്പ് പദപ്രയോഗം ഉച്ചാരണം ഫലപ്രാപ്തി എന്നിവ ഉൾപ്പെടുന്ന ആശയവിനിമയ കഴിവുകൾ നാലാമത്തേത് വ്യക്തിത്വ പ്രകടനത്തിൽ മൃദുവായ കഴിവുകൾ ശരീരഭാഷ പോസിറ്റീവ് വീക്ഷണം എന്നിവ ഉൾപ്പെടുന്നു നിങ്ങളെ എങ്ങനെ വിലയിരുത്തും വീണ്ടും ഇവിടെയും നിങ്ങൾ കാണുകയാണെങ്കിൽ 75 ശതമാനം മാർക്ക് യഥാർത്ഥത്തിൽ അറിവുമായി ബന്ധമില്ലാത്ത കാര്യങ്ങൾക്കാണ് നൽകുന്നത് അറിവിന് ക്രെഡിറ്റിന്റെ നാലിലൊന്ന് ലഭിക്കുന്നു അതിനാൽ 25 മാർക്കിൽ വ്യക്തിത്വം വസ്ത്രധാരണത്തിന് ഏകദേശം 5 മാർക്കും സ്വഭാവം സ്വരം ശബ്ദം എന്നിവയ്ക്ക് 5 മാർക്കും ആംഗ്യങ്ങൾ ശരീരഭാഷ എന്നിവയ്ക്ക് 5 മാർക്കും മാനസികാവസ്ഥയ്ക്ക് 5 മാർക്കും തുടർന്ന് മൊത്തത്തിലുള്ള മതിപ്പിന് 5 മാർക്കും നൽകും അറിവ് വീണ്ടും ഓരോ ആഴം പരിധി യുക്തിസഹമായ ചിന്ത ആശയങ്ങളുടെ ഓർഗനൈസേഷൻ മൊത്തത്തിലുള്ള ഇംപ്രഷൻ എന്നാൽ ആശയവിനിമയ കഴിവുകൾ സജീവമായ ശ്രവണശേഷി പ്രാവീണ്യം പദപ്രയോഗം ഉച്ചാരണം മൊത്തത്തിലുള്ള ഇംപ്രഷൻ നേതൃത്വം മുൻകൈയെടുക്കൽ ടീം സ്പിരിറ്റ് സഹിഷ്ണുത സംഘർഷ പരിഹാര കഴിവുകൾ തീരുമാനമെടുക്കൽ എന്നിങ്ങനെ 5 ആയി തിരിച്ചിരിക്കുന്നു ഇപ്പോൾ വിലയിരുത്തുമ്പോൾ അവർ ചില പോസിറ്റീവ് സ്വഭാവങ്ങളും ചില നെഗറ്റീവ് സ്വഭാവങ്ങളും നോക്കുന്നു പോസിറ്റീവ് സ്വഭാവസവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഞാൻ പറഞ്ഞതുപോലെ അവർ സംസാരിക്കുന്ന മിക്ക കാര്യങ്ങളും വ്യക്തിത്വത്തിന്റെ അടിസ്ഥാനത്തിലോ ശരീരഭാഷയുമായി അടുത്ത ബന്ധത്തിലോ ആണ് അവർ ആദ്യം തിരയുന്നത് ഉത്സാഹമാണ് തുടർന്ന് തീക്ഷ്ണതയും ജിജ്ഞാസയും പങ്കാളിത്തവും ഉല്ലാസവും ബുദ്ധിശക്തിയും അതിനാൽ ആശയവിനിമയ വൈദഗ്ദ്ധ്യം വ്യക്തതയ്ക്കായി അവർ നോക്കുന്ന പോസിറ്റീവ് സ്വഭാവവിശേഷങ്ങൾ ആവിഷ്കാരത്തിന്റെ ആനന്ദം വർഗ്ഗീകമായ നിഗമനം ആശയങ്ങളുടെ യോജിപ്പ് മൊത്തത്തിലുള്ള ഫലപ്രാപ്തി എന്നിവയുടെ കാര്യത്തിൽ ഞാൻ മുമ്പ് ചർച്ച ചെയ്തത് അതേ അറിവ് തന്നെയാണ് നേതൃത്വത്തിന്റെ കാര്യത്തിൽ ടീം സ്പിരിറ്റ് ഒഴികെ ഞാൻ മുമ്പ് ചർച്ച ചെയ്തത് പോലെയാണ് തുടർന്ന് ക്ഷമയും പൊതുവെ ഒരു നല്ല സ്വഭാവമായി ചേർക്കപ്പെടുന്നു വ്യക്തിയുടെ നെഗറ്റീവ് സ്വഭാവസവിശേഷതകൾ ദയവായി ഇതിൽ പൂർണ്ണ ശ്രദ്ധ നൽകുക കാരണം നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ കാര്യത്തിൽ ശരീരഭാഷ വെളിപ്പെടും നിങ്ങളുടെ ചിന്തകൾ നിങ്ങൾ സ്വയം സൂക്ഷിക്കുകയും പ്രതികരിക്കുന്നതിൽ നിങ്ങൾ വളരെ മന്ദഗതിയിലാണെങ്കിൽ അത് നെഗറ്റീവ് ആണ് ആത്മവിശ്വാസക്കുറവ് അതിനാൽ പത്ത് പേരുണ്ട് തുടർന്ന് എല്ലാവരും സംസാരിക്കുന്നു തുടർന്ന് നിങ്ങളുടെ ഊഴം വരുന്നു അതിനാൽ നിങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് അവർ ചോദിക്കുന്നു നിങ്ങൾ മൈക്ക് എടുക്കുക ഞാൻ പിന്നീട് സംസാരിക്കുമെന്ന് ഞാൻ കരുതുന്നു ഞാൻ അത് കടന്നുപോകാൻ അനുവദിക്കും അതിനാൽ ഞാൻ പിന്നീട് അതിനെക്കുറിച്ച് ചിന്തിക്കും ഇപ്പോൾ നിങ്ങൾക്ക് ആത്മവിശ്വാസമില്ലാത്ത നിങ്ങളെക്കുറിച്ചുള്ള വളരെ മോശം സ്വയം പ്രതിച്ഛായ പ്രകടിപ്പിക്കാനുള്ള അവസരം നിങ്ങൾക്ക് നഷ്ടപ്പെടും ഭയം അതിനാൽ എല്ലായ്പ്പോഴും ആരെയെങ്കിലും ഭയപ്പെടുമ്പോൾ ആരെങ്കിലും നിങ്ങളെ എന്തെങ്കിലും ചെയ്യും പിരിമുറുക്കം വളരെ സമ്മർദ്ദം പരുഷമായ വാക്കുകൾ ഉപയോഗിക്കുന്ന അധാർമികത എന്നിവയും മര്യാദയുള്ള ആവിഷ്കാരങ്ങൾ ഉപയോഗിച്ച് നിങ്ങളുടെ മൃദുവായ കഴിവുകളുടെ ഭാഗമാണ് ഒരു വികാരത്തിന്റെയും പ്രതികരണമില്ലായ്മയുടെയും വിരസതയുടെയും പൂർണ്ണമായ അഭാവമാണ് നിസ്സംഗത അതിനാൽ നിങ്ങൾ ഇരുന്ന് നിങ്ങൾക്ക് വളരെ വിരസതയുണ്ടെന്ന് കാണിക്കുകയും തുടർന്ന് നിങ്ങൾക്ക് താൽപ്പര്യമില്ലാത്തതുപോലെ മറ്റുള്ളവരെ ശ്രദ്ധിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ വിഷയ പരിജ്ഞാനത്തിന്റെ അഭാവം സൂക്ഷ്മതയുടെ അഭാവം മോശം മാനസിക നിലവാരം സൃഷ്ടിപരമായ ആശയങ്ങളുടെ അഭാവം വിശകലന ചിന്തയുടെ അഭാവം എന്നിവയെല്ലാം നെഗറ്റീവ് സ്വഭാവസവിശേഷതകൾക്ക് കാരണമാകും ആശയവിനിമയ വൈദഗ്ദ്ധ്യം വിറയൽ മൃദുത്വം ആശയക്കുഴപ്പം അവ്യക്തത എന്നിവയുടെ കാര്യത്തിൽ വഴിതിരിച്ചുവിടുകയും പ്രധാന പോയിന്റിലേക്ക് വരാതിരിക്കുകയും ചെയ്യുന്ന വളച്ചൊടിക്കൽ ഒരു വ്യക്തി സംസാരിക്കുന്ന രീതിയിൽ ചിന്തയിൽ ശരിയായ യോജിപ്പില്ല ഏകതാനത അതേ രീതിയിൽ ഒരേ ആശയങ്ങൾ വീണ്ടും വീണ്ടും പ്രകടിപ്പിക്കുന്നു നേതൃത്വം നെഗറ്റീവ് സ്വഭാവവിശേഷങ്ങൾ ഒറ്റപ്പെടൽ ഇൻസുലേറ്റഡ് അതായത് അവൻ അകന്നുനിൽക്കുന്നു സ്വയം സംരക്ഷിക്കുന്നു വ്യക്തി സമീപിക്കാനാവാത്തവനും വളരെ അഹങ്കാരിയും ആക്രമണകാരിയും ദുർബലനും അചഞ്ചലനുമാണ് പലപ്പോഴും വ്യക്തി അക്ഷമനാണ് ഇപ്പോൾ ജി ഡിയിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും മികച്ച മനോഭാവം ഇതാണ് നിങ്ങൾ ശരിയാണെന്ന് നിങ്ങൾ കരുതുകയും ആരെങ്കിലും ശരിയാണെങ്കിലും ഞാൻ തെറ്റല്ലെങ്കിൽ നിങ്ങൾ അഭിനന്ദനം പ്രകടിപ്പിക്കുകയും വേണം അതിനാൽ ജി ഡിയുടെ അവസാനം വരെ നിങ്ങൾ തെറ്റല്ലെന്ന് വ്യക്തമായി തെളിയിക്കുകയും മൊത്തത്തിൽ ഒരു വിജയ വിജയ സാഹചര്യം പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കുകയും അത് നിങ്ങളെ ജി ഡിയിൽ കാണുകയും നിങ്ങൾക്ക് ആവശ്യമുള്ള വിജയം നേടുകയും ചെയ്യും ശരീരഭാഷയിലെ ഏറ്റവും സാധാരണമായ ചില പിഴവുകൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് വളരെയധികം സംസാരിക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ പരിഭ്രാന്തരാകുകയും പിന്നീട് വളരെ കുറച്ച് സംസാരിക്കുകയും ചെയ്താൽ നിങ്ങൾ ആക്രമണാത്മകമായ പെരുമാറ്റം കാണിക്കുന്നു തുടർന്ന് അഹങ്കാരപരമായ ആംഗ്യങ്ങൾ ശ്രദ്ധ വ്യതിചലിപ്പിക്കുന്ന ശരീരഭാഷ ബട്ടൺ ഉപയോഗിച്ച് കളിക്കുക പേന ഉപയോഗിച്ച് കളിക്കുക അങ്ങനെ ചിലപ്പോൾ പേന തുറന്ന് അടയ്ക്കുക പേനയിലേക്ക് നോക്കുക വാച്ച് ഉപയോഗിച്ച് കളിക്കുക മോതിരം ഉപയോഗിച്ച് കളിക്കുക ചെവിയുടെ മോതിരം ഉപയോഗിച്ച് കളിക്കുക സംസാരിക്കാതിരിക്കുക തുടങ്ങിയവ മറ്റുള്ളവരെ നിങ്ങളെ നോക്കാൻ പ്രേരിപ്പിക്കുന്ന എല്ലാ നിഷേധാത്മക ആംഗ്യങ്ങളെയും പോലെ അവ ശ്രദ്ധ വ്യതിചലിപ്പിക്കുന്ന ശരീരഭാഷയായി മാറുന്നു നിസ്സംഗത നിങ്ങൾ ഒരു പങ്കാളിയല്ലാത്തതുപോലെ തുടർന്ന് കാഴ്ചക്കാരന്റെ പെരുമാറ്റം നിങ്ങൾ ഇരുന്ന് മറ്റുള്ളവർ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കുക നിങ്ങൾ പങ്കെടുക്കുന്നില്ല അസ്വസ്ഥത അതിനാൽ പരിഭ്രാന്തി കാണിക്കുന്നു ദുർഗന്ധം വമിക്കുന്നു ഒരുപക്ഷേ നിങ്ങൾ കുറച്ച് വെളുത്തുള്ളി വറുത്ത അരി കഴിച്ചു നിങ്ങൾ വായ കഴുകിയില്ല നിങ്ങൾ പുകവലിച്ചു നിങ്ങൾ വായ കഴുകിയില്ല നിങ്ങൾ കുറച്ച് ബിയർ കഴിച്ചു നിങ്ങൾ വായ കഴുകിയില്ല അതിനാൽ ആ മണം തീക്ഷ്ണമായ മണം അതിനാൽ ആളുകൾക്ക് നിങ്ങളോട് പെട്ടെന്ന് ദേഷ്യവും പ്രകോപനവും തോന്നും ശരീരഭാഷയുടെ കാര്യത്തിൽ കൂടുതൽ പ്രായോഗിക നുറുങ്ങുകൾ ഇതിനകം പറഞ്ഞിട്ടുണ്ട് എന്നാൽ ജിഡിയുടെ കാര്യത്തിലും ഞാൻ പ്രത്യേകമായി ഊന്നിപ്പറയാൻ ആഗ്രഹിക്കുന്നു ജിഡിയിലുടനീളം നേത്ര സമ്പർക്കം നിലനിർത്തുക അതിനാൽ നിങ്ങൾ ആരെയെങ്കിലും അഭിസംബോധന ചെയ്യുന്നില്ലെങ്കിലും നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളെ നോക്കുന്നത് തുടരുക നിങ്ങൾ സംസാരിക്കുമ്പോൾ വീണ്ടും നിങ്ങൾ കണ്ണ് സമ്പർക്കം മാറ്റാൻ ശ്രമിക്കുന്നു തുടർന്ന് മുഴുവൻ ഗ്രൂപ്പിനെയും അഭിസംബോധന ചെയ്യാൻ ശ്രമിക്കുന്നു ഒരു പ്രത്യേക വ്യക്തിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കരുത് പ്രത്യേകിച്ച് നിങ്ങളോട് യോജിക്കുന്ന വ്യക്തിയിൽ അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയിൽ അതിനാൽ നിങ്ങൾക്ക് ഇഷ്ടമല്ലെന്നും നിങ്ങളുടെ എതിരാളിയാകാൻ സാധ്യതയുണ്ടെന്നും നിങ്ങൾ കരുതുന്ന വ്യക്തിയെ നോക്കാൻ പോലും ശ്രമിക്കുക എന്നാൽ ആ വ്യക്തിയെ നോക്കുന്നതും ഒരുതരം ബന്ധം നിലനിർത്താൻ നിങ്ങളെ സഹായിക്കും നഖങ്ങൾ കടിക്കുക കാലുകൾ കുലുക്കുക അല്ലെങ്കിൽ കൈ കുലുക്കുക എന്നിവയിൽ വിനാശകരവും നിഷേധാത്മകവുമായ ശരീരഭാഷ കൂടുതൽ ഒഴിവാക്കുക കാലുകൾ കുലുക്കുന്നത് ശരിക്കും വളരെ വിനാശകരമായ ആംഗ്യമാണ് പേന ഉപയോഗിച്ച് കളിക്കുന്ന മൂക്ക് എടുക്കുമ്പോൾ ഞാൻ നിങ്ങളോട് ഇതിനകം പറഞ്ഞിട്ടുണ്ട് കൈകൾ തലയ്ക്ക് പിന്നിൽ പിടിച്ച് കസേരയിൽ കുനിഞ്ഞിരിക്കരുത് ഇത് നിങ്ങൾ അഹങ്കാരിയാണെന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് താൽപ്പര്യമില്ലെന്നും കാണിക്കുന്നു മാത്രമല്ല നിങ്ങൾ വളരെ അക്രമാസക്തനാണെന്നും ഇത് കാണിക്കും നിങ്ങൾ അക്രമാസക്തരാകരുത് നിങ്ങൾ ഉറച്ചുനിൽക്കണം പിന്നെ അവർക്ക് നിങ്ങൾക്ക് ചക്രങ്ങളുള്ള കസേരകളും നൽകാം അതിനാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ ശ്രമിക്കരുത് വശങ്ങളിലേക്ക് നീങ്ങരുത് ആരുടെയെങ്കിലും കസേരയിൽ അടിക്കരുത് കസേരയിൽ കളിക്കുക കസേരയ്ക്കും കറങ്ങാൻ കഴിയുമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ ശ്രമിക്കരുത് അത് കറക്കുന്നത് തുടരുക അതിനാൽ ഇവയെല്ലാം വിനാശകരമായ പെരുമാറ്റമാണ് നിങ്ങളിൽ വളരെ പക്വതയില്ലാത്തതും പ്രൊഫഷണലല്ലാത്തതുമായ മനോഭാവം കാണിക്കുന്നു മൊത്തത്തിൽ ഗ്രൂപ്പ് ചർച്ചകളിൽ നിങ്ങൾ ശരീരഭാഷയുടെ ഏതൊക്കെ വശങ്ങൾ പ്രദർശിപ്പിക്കണം പൊസിഷൻ പോകുമ്പോഴും ഇരിക്കുമ്പോഴും നേരെ നടക്കുക മുമ്പ് പറഞ്ഞതുപോലെ ഉയരത്തിൽ നിൽക്കുക തുടർന്ന് ഉയരത്തിൽ ഇരിക്കുക ഇരിക്കുന്നതിനുമുമ്പ് ഉറച്ച ഹസ്തദാനം ചെയ്യുക അല്ലെങ്കിൽ സ്ത്രീകൾ ഉണ്ടെങ്കിൽ അവർ ഹസ്തദാനം ചെയ്യാൻ ലജ്ജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമസ്തേ പറയുകയും ആക്രമണാത്മക പെരുമാറ്റം കാണിക്കുക എളുപ്പത്തിൽ പ്രകോപിപ്പിക്കപ്പെടുക തുടങ്ങിയ ഏതെങ്കിലും തരത്തിലുള്ള നിഷേധാത്മക സ്വഭാവങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുകയും ചെയ്യാം ആരെങ്കിലും വളരെ പ്രകോപനപരമായ പ്രസ്താവന നടത്തുന്നുണ്ടെങ്കിൽ പോലും ജി ഡിയിൽ ദേഷ്യപ്പെടരുത് താൽപ്പര്യവും സഹാനുഭൂതിയും കാണിക്കാൻ അൽപ്പം മുന്നോട്ട് ചായുക തുറന്ന ഈന്തപ്പന ആംഗ്യങ്ങൾ ഉപയോഗിക്കുക അത് നിങ്ങളുടെ പോക്കറ്റിനുള്ളിൽ വയ്ക്കരുത് പുറകിൽ വയ്ക്കരുത് അതിനാൽ അത് മറയ്ക്കാൻ ശ്രമിക്കരുത് നിങ്ങൾക്ക് കോട്ടും മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്ന ഈന്തപ്പന ആംഗ്യങ്ങൾ ഉപയോഗിക്കുക നിങ്ങൾക്ക് ഒരു ഫയലും ഹാൻഡ്ബാഗും ഉണ്ടെങ്കിൽ മറയ്ക്കാൻ ശ്രമിക്കരുത് അതിനാൽ നിങ്ങൾ അത് ഇവിടെ വയ്ക്കുകയും തുടർന്ന് മറയ്ക്കാൻ ശ്രമിക്കുകയും ചെയ്യുക അങ്ങനെ ചെയ്യരുത് അതിനാൽ തുറന്നിരിക്കുക സമ്മതം പ്രകടിപ്പിക്കാൻ തല കുലുക്കുകയും ചിലപ്പോൾ നിങ്ങൾക്ക് പോലും അഭിനന്ദനം പ്രകടിപ്പിക്കാൻ പോലും തല കുലുക്കാനും സൌമ്യമായി പുഞ്ചിരിക്കാനും കഴിയും നിങ്ങൾക്ക് ആരെയെങ്കിലും അഭിനന്ദിക്കാൻ കഴിയുമെന്ന് കാണിക്കുന്നതിലൂടെ നിങ്ങൾ ഒരു കാര്യം പറഞ്ഞിട്ടില്ലെങ്കിൽപ്പോലും അത് നിങ്ങളുടെ നേതൃത്വ ഗുണനിലവാരത്തിലെ മറ്റൊരു പ്രധാന അവകാശം കാണിക്കുന്നു ആരെങ്കിലും ഒരു നല്ല കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അരക്ഷിതാവസ്ഥ അനുഭവപ്പെടുന്നില്ല എന്നിട്ട് ആ വികിരണം ചെയ്യുന്ന പുഞ്ചിരി നൽകുക അതിനാൽ അത് വളരെയധികം ഊർജ്ജത്തോടെ വരുന്നു നിങ്ങൾ ആ വികിരണം ചെയ്യുന്ന പുഞ്ചിരി നൽകുമ്പോൾ നിങ്ങളെ നോക്കുന്നത് നല്ലതാണ് ആരെങ്കിലും നിങ്ങളെ അപമാനിക്കുകയാണെങ്കിൽപ്പോലും സന്തോഷവാനായിരിക്കുക അത് വളരെ കഠിനമായി എടുക്കരുത് അതിനാൽ ഇത് ഒരു ജിഡി ആണ് നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ പ്രകടിപ്പിക്കാൻ നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നു ഒരു പോരാട്ടം ഉണ്ടെങ്കിലും കൂടുതൽ വെളിച്ചം വരണം നിങ്ങൾ പോരാട്ടം കുറയ്ക്കണം ജിഡിക്ക് മുമ്പും ശേഷവും സുഹൃത്തുക്കളിൽ നിന്നോ നിങ്ങളുടെ സ്വന്തം വീഡിയോ റെക്കോർഡിംഗിൽ നിന്നോ ഉള്ള പ്രതികരണം ഉപയോഗിച്ച് നിങ്ങളുടെ പ്രകടനം നിരീക്ഷിക്കുക അതിനാൽ അത് സംഭവിക്കുമ്പോഴും നിങ്ങളുടെ പ്രകടനത്തിന്റെ ഒരു വീഡിയോ റെക്കോർഡിംഗ് ക്രമീകരിക്കാൻ കഴിയുമെങ്കിൽ അത് അവലോകനം ചെയ്യുകയും മോക്ക് പെർഫോമൻസ് നടത്താൻ ശ്രമിക്കുകയും ചെയ്യുക പ്രത്യേകിച്ചും നെഗറ്റീവ് പെരുമാറ്റം നോക്കുക അത് കുറയ്ക്കാൻ ശ്രമിക്കുക ഗ്രൂപ്പിലെ ആളുകളോടും നിങ്ങളുടെ സുഹൃത്തുക്കളോടും നിങ്ങളിൽ എന്താണ് ഇഷ്ടപ്പെട്ടതെന്ന് ചോദിക്കുക നിങ്ങൾ ജി ഡിയിൽ പ്രഭാഷണ അവതരണം നൽകുമ്പോൾ ആ സ്വഭാവസവിശേഷതകൾ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക ഞാൻ നിങ്ങൾക്ക് നൽകുന്ന അടുത്ത ഉപദേശം ഒരു പ്രത്യേക ജോലി ലഭിച്ചുകഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിത്വം മാറ്റാൻ കാത്തിരിക്കരുത് എന്നതാണ് അതിനാൽ എനിക്ക് ജോലി ലഭിക്കുകയും അടുത്ത ജോലിക്കായി ശ്രമിക്കുകയും ചെയ്താൽ ഞാൻ എന്റെ സോഫ്റ്റ് സ്കിൽസും വ്യക്തിത്വവും മെച്ചപ്പെടുത്തുമെന്ന് കരുതരുത് ഞാൻ ജി ഡിയിൽ വളരെ നല്ല പങ്കാളിയാകും ഇപ്പോൾ ഞാൻ ലജ്ജിക്കുന്നു ഇപ്പോൾ ഞാൻ അന്തർമുഖനാണ് ഇപ്പോൾ ഞാൻ വികസിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ അത് ചെയ്താൽ എനിക്ക് ആ ജോലി ലഭിക്കുകയാണെങ്കിൽ ഞാൻ തീർച്ചയായും അത് ചെയ്യും എന്നാൽ വ്യക്തിത്വം മുൻപ് തന്നെ കരുതുക നിങ്ങൾ ആ വ്യക്തിത്വം ഏറ്റെടുക്കുമ്പോൾ നിങ്ങൾക്ക് ആ ആവശ്യമുള്ള ജോലി അല്ലെങ്കിൽ അതിലും മികച്ച ജോലി ലഭിക്കും എന്നാൽ ജോലി ലഭിച്ചതിന് ശേഷം നിങ്ങൾ മാറുമെന്നും നിങ്ങളുടെ വ്യക്തിത്വം വികസിപ്പിക്കുമെന്നും കരുതുന്നത് ഗുണം ചെയ്യില്ല നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നതിന് മുമ്പുതന്നെ ആ വ്യക്തിയായി മാറുക ആ സ്ഥാനത്തേക്ക് സ്ഥാനക്കയറ്റം ലഭിക്കുന്നതിന് മുമ്പുതന്നെ നിങ്ങൾ ആ സ്ഥാനത്താണെന്നപോലെ പെരുമാറുക മൊത്തത്തിൽ വിജയ മനോഭാവം പിന്തുടരുക അതിനാൽ അത് വളരെ പ്രധാനമാണ് അതിനാൽ നിങ്ങൾ വിജയ മനോഭാവം പുലർത്തുമ്പോൾ നിങ്ങളുടെ മനസ്സിനെ മാനസികവൽക്കരിക്കുകയും നിങ്ങൾക്ക് അത് ലഭിക്കുമെന്ന് ചിന്തിക്കുകയും ചെയ്യുക അതിനാൽ നിങ്ങളുടെ മുഖത്ത് സന്തോഷമുണ്ടാകും നിങ്ങൾ ശാന്തരും ഒത്തൊരുമിച്ചവരുമായിരിക്കും ശരീരം മുഴുവൻ അത് പ്രദർശിപ്പിക്കും നിങ്ങൾ ഭയപ്പെടാൻ പോകുന്നവരോ ആരെങ്കിലും അടിച്ചമർത്താൻ പോകുന്നവരോ അല്ല നിങ്ങൾ സ്വാഭാവിക നേതാവായി ഉയർന്നുവരും ജി ഡിയിൽ മാത്രം നിങ്ങളെ നിരസിക്കുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും ഇപ്പോൾ ഇത് പറഞ്ഞുകഴിഞ്ഞാൽ നിങ്ങൾ വിജയ മനോഭാവം പുലർത്തിയാലും ചിലപ്പോൾ നിങ്ങളെക്കാൾ മികച്ച ഗുണങ്ങൾ വികസിപ്പിച്ചെടുത്ത ചില ആളുകളുണ്ട് ഒരുപക്ഷേ അവർക്ക് നിങ്ങളെക്കാൾ മികച്ച അവബോധം ഉണ്ടായിരിക്കാം അതിനാൽ ചിലപ്പോൾ അവർ നിങ്ങളിൽ ആധിപത്യം പുലർത്തുന്നതായി തോന്നുന്നു അവർ നിങ്ങളെക്കാൾ വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നുവെന്ന് തോന്നുന്നു ഒരുപക്ഷേ അവർ ജി ഡിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കാം പക്ഷേ ഇത് ഓർക്കുക നിരാശപ്പെടരുത് ഇത് ഓർക്കുക ഇത് നിങ്ങൾക്കുള്ള എന്റെ സമാപനക്കുറിപ്പാണ് തർക്കത്തിൻ്റെയോ ചർച്ചയുടെയോ ലക്ഷ്യം വിജയമല്ല പുരോഗതിയായിരിക്കണം അതിനാൽ ഞാൻ തോറ്റു ആരെങ്കിലും വിജയിച്ചു ചർച്ചയുടെ മുഴുവൻ ലക്ഷ്യവും പുരോഗതി ചിന്തയുടെ കാര്യത്തിൽ പുരോഗതി പുതിയ അനുഭവം നേടുന്നതിന്റെ കാര്യത്തിൽ പുരോഗതി നിങ്ങളുടെ സ്വന്തം വ്യക്തിത്വ വികസനത്തിന്റെ കാര്യത്തിൽ പുരോഗതി എന്നിവയായിരുന്നില്ലെന്ന് നിങ്ങൾ ചിന്തിക്കരുത് നിങ്ങൾ പങ്കെടുക്കുന്ന ഓരോ ജിഡിയും നിങ്ങൾക്ക് ഒരുതരം പീക്ക് അനുഭവം നൽകുന്നു പങ്കെടുക്കുന്ന ഓരോ അഭിമുഖവും നിങ്ങൾക്ക് തികച്ചും വ്യത്യസ്തമായ ഒരു അനുഭവം നൽകും അത് നിങ്ങൾക്ക് മറ്റുവിധത്തിൽ ലഭിക്കില്ല കെട്ടിപ്പടുക്കുന്ന തരത്തിലുള്ള സമ്മർദ്ദം നിങ്ങൾ സമ്മർദ്ദം പോസിറ്റീവ് സമ്മർദ്ദം അതിനുശേഷം നിങ്ങൾക്കുള്ള ആശ്വാസം എന്നിവ നിങ്ങളെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്നു നിങ്ങളുടെ സ്വന്തം വീഡിയോ കാണുന്നതിലൂടെയും കൂടുതൽ ജിഡികളിൽ വീണ്ടും വീണ്ടും പങ്കെടുക്കുന്നതിലൂടെയും ഞാൻ നൽകിയ നുറുങ്ങുകൾ ഉപയോഗിക്കുന്നതിലൂടെയും പ്രത്യേകിച്ച് നിങ്ങളുടെ ശരീരഭാഷയുടെ വശങ്ങളിൽ വളരെ ശ്രദ്ധാപൂർവ്വം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെയും നിങ്ങൾ ചെയ്തേക്കാവുന്ന ചില ചെറിയ തെറ്റുകളിൽ നിന്ന് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ പുരോഗതി കൈവരിക്കും ഈ കുറിപ്പോടെ ഞങ്ങൾ ഈ ആഴ്ച അവസാനിപ്പിക്കുന്നു ഞങ്ങൾക്ക് ഒരു ആഴ്ച കൂടി മാത്രമേയുള്ളൂ തുടർന്ന് അത് അവസാനത്തെ അവസാന ആഴ്ചയായിരിക്കും വരും ആഴ്ചയിൽ നടക്കുന്ന അടുത്ത പ്രഭാഷണമാണിത് നിങ്ങളിൽ പലരും അറിയാൻ ആഗ്രഹിച്ചതുപോലെ അവതരണ വൈദഗ്ധ്യത്തിൽ നിന്നാണ് ഞാൻ ആരംഭിക്കാൻ പോകുന്നത് അവതരണ വൈദഗ്ധ്യത്തിൽ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ കഴിയും അത് അടുത്തതായിരിക്കും പക്ഷേ ഇന്ന് മുതൽ നിങ്ങൾ പങ്കെടുക്കാൻ പോകുന്ന എല്ലാ ജി ഡികളിലും ഞാൻ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് വിജയം ആശംസിക്കുന്നു നിങ്ങൾക്ക് എല്ലാ ആശംസകളും നേരുന്നു ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി